നോഡൽ അനാലിസിസിന്റെ രൂപവൽക്കരണത്തിൽ ഘടകങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടും ഇനി നമ്മൾ ഒരു സർക്യൂട്ട് എടുക്കും എന്നിട്ട് നോഡൽ അനാലിസിസ് സമവാക്യങ്ങൾ എടുക്കും എന്നിട്ട് സർക്യൂട്ടിൽ മാറ്റം വരുത്തും ഇപ്പോൾ നോക്കുക എന്തൊക്കെ മാറ്റമാണ് നോഡൽ അനാലിസിസ് സമവാക്യങ്ങൾ വഴി വന്നിരിക്കുന്നതെന്ന് ഈ അദ്ധ്യയനത്തിൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ വീഡിയോ താൽക്കാലികമായി നിറുത്തിയിട്ട് ഞാൻ സർക്യൂട്ടിൽ മാറ്റം വരുത്തിയതിനു ശേഷം തന്നെത്താനെ കണ്ടുപിടിക്കുക നോഡൽ അനാലിസിസ് സമവാക്യത്തിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് എന്നിട്ട് താരതമ്യപ്പെടുത്തുക ഞാൻ കാണിക്കുന്ന ഉത്തരവുമായിട്ട് ഇതാണ് പഠിക്കുവാനുള്ള മെച്ചപ്പെട്ട വഴി എന്നിട്ട് ഞാൻ തരുന്ന ഉത്തരം വെറുതെ നോക്കുക ഞാൻ ഇതുവരെ ഉപയോഗിച്ച അതേ സർക്യൂട്ട് തന്നെ എടുക്കുന്നു ഇത് I1 R11 R12 R23 R22 R33 ഇത് റഫറൻസ് നോഡ് ആണ് ഇത് I3 ഞാൻ കീഴ്ക്കുറിപ്പ് അങ്ങനെ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് ഇപ്പോൾ സ്പഷ്ടമായി കാണും R11 അടിസ്ഥാനപരമായി നോഡ് ഒന്നിലേക്കും റഫറൻസ് നോഡിലേക്കും ഘടിപ്പിച്ചതാണ് നോഡ് ഒന്നിന്റെയും രണ്ടിന്റെയും ഇടയിൽ ഘടിപ്പിച്ചതാണ് R12 നോഡ് രണ്ടിന്റെയും മൂന്നിന്റേയും ഇടയിൽ ഘടിപ്പിച്ചതാണ് R13 അതുപോലെ തന്നെ നോഡ് രണ്ടിൽ നിന്നും ഗ്രൌണ്ടിൽ നിന്നും ആണ് R22 നോഡ് മൂന്നിൽ നിന്നും ഗ്രൌണ്ടിൽ നിന്നും ആണ് R33 അങ്ങനെ അങ്ങനെ I1 ആണ് നോഡ് ഒന്നിലേക്ക് കൊടുത്തിരിക്കുന്ന കറണ്ട് സ്രോതസ്സ് I3 ആണ് നോഡ് മൂന്നിലേക്ക് കൊടുത്തിരിക്കുന്ന കറണ്ട് സ്രോതസ്സ് അപ്പോൾ നമുക്ക് ഇതിനും നോഡൽ അനാലിസിസ് ഉണ്ട് ഇത് അത്രയും തവണ V1 V2 V3 I1 0 I3 ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ സർക്യൂട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തും എന്നിട്ട് ഇത് നോഡൽ അനാലിസിസ് സമവാക്യങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റങ്ങൾ എങ്ങനെ ബാധിച്ചുവെന്ന് നോക്കുക എന്നിട്ട് ഞാൻ ചെയ്തതുമായി താരതമ്യം ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേറൊരു റെസിസ്റ്റർ Ra ഇവിടെ കൂട്ടി ചേർക്കട്ടെ അപ്പോൾ ചെയ്തു നോക്കുക നോഡൽ അനാലിസിസിൽ എന്ത് സംഭവിക്കും എന്ന് ഈ കേസിൽ അത് തീർച്ചയാണ് റെസിസ്റ്റൻസ് Ra റെസിസ്റ്റൻസ് R11 ആയിട്ട് പാരലൽ ആണെന്ന് അപ്പോൾ കണ്ടക്ടൻസ് വെറുതെ സങ്കലനം ചെയ്യും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നോഡ് ഒന്നിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ള മൊത്തം കണ്ടക്ടൻസ് അടങ്ങിയതാണ് ഡയഗണൽ ഘടകങ്ങൾ അപ്പോൾ Ga ഇവിടെ പ്രത്യക്ഷപ്പെടും അപ്പോൾ ഈ പാരലൽ കൂട്ടുകെട്ട് നിങ്ങളോട് പറയുന്നത് എന്താണെന്നുവെച്ചാൽ G11 നേരത്തെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ G11 പ്ലസ് Ga വേണം ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് ഇത് ഡയഗണൽ ഘടകങ്ങളുമായി ചേർച്ചയുള്ളതാണ് അതായതു നോഡിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ള മൊത്തം കണ്ടക്ടൻസ് ഇനി ഞാൻ ഇത് മാറ്റി വയ്ക്കട്ടെ ഇനി നമുക്ക് വേറൊരു മാറ്റം നോക്കാം അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ചെയ്തതിൽനിന്ന് ഇത് ഈ I3 കറണ്ട് സ്രോതസിന് പുറത്തേക്ക് എടുക്കട്ടെ അപ്പോൾ ചെയ്തുനോക്കുക എന്താണ് സമവാക്യത്തിൽ സംഭവിക്കുവാൻ പോകുന്നതെന്ന് കാരണം നമ്മൾ സ്വതന്ത്ര സ്രോതസ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനാൽ ഇത് സമവാക്യത്തിൻറെ വലതുവശത്ത് മാത്രമേ മാറ്റം വരുത്തുകയുള്ളൂ ഉത്തരം വീണ്ടും സ്പഷ്ടമാണ് ഈ ഘടകം അതായത് നോഡ് മൂന്നിലേക്ക് മൊത്തം കറണ്ട് കൊടുക്കുന്നു അത് I3 ആയിരുന്നു പക്ഷേ ഇപ്പോൾ മൈനസ് I3 ആണ് അത് എങ്ങനെ വന്നാലും ഇങ്ങനെ ദിശ തിരിക്കുകയാണ് അപ്പോൾ ഇത് മൈനസ് I3 ആകും ഇനി നമുക്ക് വേറൊരു മാറ്റം നോക്കാം നോഡ് ഒന്നിന്റെയും നോഡ് മൂന്നിന്റേയും ഇടയിൽ കണ്ടക്ടൻസ് കൂട്ടിച്ചേർക്കട്ടെ അപ്പോൾ എന്താണ് ഈ മാറ്റം അതൊന്ന് ചെയ്തു നോക്കുക ഇനി എനിക്ക് കണ്ടക്ടൻസ് ഉണ്ട് തീർച്ചയായും ഞാൻ കണ്ടക്ടൻസ് കൂട്ടിച്ചേർത്ത നോഡുകളിൽ മൊത്തം ആയിട്ടുള്ള കണ്ടക്ടൻസിനു മാറ്റം വരും അപ്പോൾ ഈ നോഡുകൾക്ക് അനുരൂപമായിരിക്കുന്ന ഡയഗണൽ ഘടകങ്ങൾക്ക് മാറ്റം വരും അതിനാൽ നോഡ് 1 ഇവിടെ ഉണ്ട് മൊത്തമായ കണ്ടക്ടൻസ് നേരത്തെ G11 പ്ലസ് G12 ആയിരുന്നു ഇപ്പോൾ അതിനു G13 യും ഉണ്ടാകും ഇത് നോഡ് 3 നു നേരത്തെ ഇത് G23 പ്ലസ് G33 ആയിരുന്നു ഇപ്പോൾ G13 യും ഉണ്ട് അതിനാൽ G13 പ്ലസ് G23 പ്ലസ് G33 വേറൊരു കാര്യം ഇവിടെ മാറുന്നത് ഹാഫ് ഡയഗണൽ ഘടകം ആണ് കാരണം ഈ കണ്ടക്ടൻസ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു നോഡിന്റെയും ഇടയിൽ അല്ല അതിൽ ഒന്നും റഫറൻസ് നോഡ് അല്ല അതിനാൽ ഈ ഘടകം അതായത് നേരത്തെ 0 ആയത് നോഡ് ഒന്നിന്റെയും മൂന്നിന്റെയും ഇടയിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നതിനു കണ്ടക്ടൻസ് ഇല്ലായിരുന്നു ഇപ്പോൾ അത് മൈനസ് G13 ആണ് അതുപോലെതന്നെ ഇവിടെ ഇത് മൈനസ് G13 ആകും മെട്രിക്സ് സിമിട്രി ആണ് കാരണം നമുക്ക് ഇപ്പോഴും കണ്ടക്ടൻസും കറണ്ട് സ്രോതസ്സും മാത്രം ഉള്ള സർക്യൂട്ട് ആണ് ഉള്ളത് മെട്രിക്സ് സിമിട്രി ആണ് ഇതാണ് നോഡൽ അനാലിസിസ് സജ്ജീകരണത്തിനു സംഭവിക്കുന്നത് ഇനി നമുക്ക് വേറൊരു മാറ്റം നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു കറണ്ട് സ്രോതസ്സ് Ix നോഡ് ഒന്നിന്റെയും നോഡ് മൂന്നിന്റേയും ഇടയിൽ ഈ ദിശയിൽ ഘടിപ്പിക്കട്ടെ ഇതിൽ നിന്ന് എന്ത് മാറ്റമാണ് നിങ്ങൾ പ്രതീകഷിക്കുന്നത് ഞാൻ സർക്യൂട്ടുമായി ഘടിപ്പിച്ചിട്ടുള്ള സ്വന്ത്രന്ത്ര സ്രോതസ്സുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനാൽ ഇത് സർക്യൂട്ടിന്റെ വലതു വശത്തു മാറ്റം വരുത്തും ഇനി ഇത് എന്ത് ഘടകമാണ് വെക്ടർ സ്രോതസ്സിന്റെ ആദ്യത്തെ ഘടകം അത് നോഡ് ഒന്നിലേക്ക് കൊടുത്തിരിക്കുന്ന സ്വതന്ത്ര കറൻറ് മൊത്തം ആണ് തുടക്കത്തിൽ അത് I1 ആയിരുന്നു ഇപ്പോൾ അത് I1 മൈനസ് Ix ആണ് ഘടിപ്പിച്ചിട്ടുള്ള Ix ന്റെ പൊളാരിറ്റി കാരണം അപ്പോൾ I1 നു പകരം എനിക്ക് I1 മൈനസ് Ix ആണ് ഉണ്ടാവുക നോഡ് 2 തൊട്ടിട്ടില്ല അത് ഇപ്പോഴും 0 ആയിരിക്കും നോഡ് 3 I3 പ്ലസ് Ix ആകും കാരണം നിങ്ങൾ നോക്കിയാൽ കാണാം നോഡ് ഒന്നിൽനിന്ന് Ix വലിച്ചെടുക്കപ്പെടുകയാണ് എന്നിട്ട് നോഡ് 3 ലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നോഡൽ അനാലിസിസിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഞാൻ വേറൊരു ഉദാഹരണം എടുക്കട്ടെ ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഒരു കറണ്ട് സ്രോതസ്സ് Ix ഇതുപോലെ നോഡ് ഒന്നിന്റെയും രണ്ടിന്റെയും ഇടയിൽ പകരം ഘടിപ്പിക്കും വീണ്ടും Ix ആണ് നോഡ് ഒന്നിൽ നിന്ന് വലിച്ചെടുക്കപെടുന്നത് അപ്പോൾ ഇത് I1 മൈനസ് Ix Ix ആണ് നോഡ് രണ്ടിലേക്ക് വലിച്ചെടുക്കപെടുന്നത് ഇതിനാൽ ഇത് പ്ലസ് Ix ആകും I3 അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴൊക്കെ സ്രോതസ്സ് മാറ്റിയാൽ സ്രോതസ്സ് വെക്ടർ എപ്പോഴും മാറും ഈ കേസിൽ അത് കറണ്ട് സ്രോതസ്സ് ആണ് അപ്പോൾ ഇത് വെച്ച് G മെട്രിക്ക്സിന്റെ ഘടനയും സ്രോതസ്സ് വെക്ടറും സ്പഷ്ടമാണ് വീണ്ടും പരിഹാരം തീർച്ചയായും മെട്രിക്സ് ഇൻവെർഷൻ ഉൾപ്പെടുന്നതാണ് അത് നിങ്ങൾക്ക് പരിഹരിക്കാം പക്ഷെ ഈ നോഡൽ അനാലിസിസിന്റെ ആശയം എന്താണെന്നു വെച്ചാൽ ഒരു ചിട്ടയോടുകൂടിയ വഴി വലിയ സർക്യൂട്ടുകളിലെ സമവാക്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണം എന്നാണ് അപ്പോൾ ഘടന മനസ്സിലാക്കുവാൻ ഇത് വളരെ പ്രധാനമാണ് കാരണം സാധാരണയായി നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ സർക്യൂട്ടിലേക്ക് നോക്കും എന്നിട്ട് പ്രധാനപ്പെട്ട ഏതെങ്കിലും ലൂപ്പ് കണ്ടുപിടിക്കും എന്നിട്ട് നോഡ് 2 യിൽ നിന്ന് തുടങ്ങും അല്ലെങ്കിൽ നിങ്ങൾക്ക് സൌകര്യമുള്ള ഏതെങ്കിലും നിങ്ങൾ എഴുതി തുടങ്ങും ഏതെങ്കിലും അഡ് ഹോക് വഴി ആയിരിക്കും സമവാക്യങ്ങൾ എഴുതുക അവസാനം നിങ്ങൾക്ക് മതിയായ സമവാക്യങ്ങൾ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ അത് സൈമൾട്ടണിയസ് ആയിട്ട് പരിഹരിക്കും പക്ഷെ വലിയ സർക്യൂട്ടിൽ ഇത് നടക്കില്ല നമുക്ക് നിശ്ചിതമായ സമവാക്യങ്ങളുടെ എണ്ണം ഉണ്ട് അതൊക്കെ ഉണ്ടാക്കി ചിട്ടയോടുകൂടി ചെയ്യണം അപ്പോൾ ഈ നോഡൽ അനാലിസിസ് ആണ് ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം